കഴിഞ്ഞ ക്ലാസ്സിൽ ഫോട്ടോഇലാസ്റ്റിസിറ്റിക്ക് ഒരു ലഘു ആമുഖം നമ്മൾ കണ്ടു കൂടാതെ നാല് പോയിന്റ് ബെൻഡിങ്നു വിധേയമായ ഒരു ബീമിന്റെ ഉദാഹരണമെടുത്ത് ഞാൻ ഫോട്ടോഇലാസ്റ്റിസിറ്റി അവതരിപ്പിച്ചു ഫോട്ടോഇലാസ്റ്റിക് ഫ്രിഞ്ച്കൾ സിഗ്മ 1 മൈനസ് സിഗ്മ 2 യുടെ കോൺണ്ടർകളെ പ്രതിനിധീകരിക്കുന്നുവെന്ന് കാണിക്കുന്നതിലായിരുന്നു ശ്രദ്ധ അതിനാൽ എന്താണ് പ്രയോജനം നിങ്ങൾക്ക് സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾ ഉണ്ടെങ്കിൽ വിശകലനപരമായി സിഗ്മ 1 മൈനസ് സിഗ്മ 2 കണക്കാക്കാനും അത് പ്ലോട്ട് ചെയ്യാനും പരീക്ഷണങ്ങളിൽ ലഭിച്ചവയുമായി താരതമ്യപ്പെടുത്തുമോ എന്ന് നോക്കാനും നിങ്ങൾക്ക് കഴിയും വൃത്താകൃതിയിലുള്ള ദ്വാരത്തേക്കാളും എലിപ്റ്റിക്കൽ ദ്വാരത്തേക്കാളും അപകടകരമാണ് ആ വിള്ളൽ നമ്മൾ ഫ്രിഞ്ച് പാറ്റേണുകളും കണ്ടു ആ ഫ്രിഞ്ച് പാറ്റേണുകൾ നമ്മൾ വീണ്ടും കാണും നിങ്ങൾക്ക് ഒരു വൃത്താകൃതിയിൽ ദ്വാരമുള്ള ഒരു പ്ലേറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഒരു എലിപ്റ്റിക്കൽ ദ്വാരമുള്ള ഒരു പ്ലേറ്റ് ഉണ്ട് കൂടാതെ നിങ്ങൾക്ക് ഒരു വിള്ളൽ ഉള്ള ഒരു പ്ലേറ്റ് ഉണ്ട് കൂടാതെ ഞാൻ വൃത്താകൃതിയിൽ ദ്വാരമുള്ള പ്ലേറ്റിൽ ഉം അതുപോലെ എലിപ്റ്റിക്കൽ ദ്വാരമുള്ള പ്ലേറ്റിൽ ഉം ലോഡ് 7 ആയി നിലനിർത്തുന്നുവെങ്കിൽ ഒരു താരതമ്യം കാണിക്കുന്നത് വിള്ളലിൽ നിങ്ങൾ കാണുന്ന ഫ്രിഞ്ച്കളുടെ എണ്ണംനിങ്ങൾ ഒരു എലിപ്റ്റിക്കലിൽ അല്ലെങ്കിൽ വൃത്താകൃതിയിലുള്ള ദ്വാരത്തിൽ കാണുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് നമുക്ക് ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു വഴി വിള്ളലിന് സമീപത്ത് സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾ നമ്മൾ വികസിപ്പിക്കാൻ പോകുന്നു ആ സമവാക്യങ്ങൾ ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ നമുക്കു ചെയ്യാൻ കഴിയുന്നത് വിശകലന സമവാക്യത്തിൽ നിന്ന് സിഗ്മ 1 മൈനസ് സിഗ്മ 2 നേടുകയും അവ പ്ലോട്ട് ചെയ്യുകയും പരീക്ഷണ ഫലവുമായി താരതമ്യം ചെയ്യുകയും നമ്മുടെ പരിഹാരം ശരിയാണോ എന്ന് ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് അതുകൊണ്ടാണ് ഫ്രാക്ചർ മെക്കാനിക്സിലെ ആശയങ്ങൾ വികസിപ്പിക്കുന്നതിന് വിപുലമായ ഫോട്ടോഇലാസ്റ്റിക് രീതി ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശരിക്കും ചരിത്രം നോക്കുകയാണെങ്കിൽ ഫോട്ടോഇലാസ്റ്റിക് ഫ്രിഞ്ച്ന്റെ ജോമട്രി സവിശേഷതകൾ കൊണ്ട് സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾ മെച്ചപ്പെടുത്തി കൂടാതെ വിള്ളലിന് സമീപമുള്ള ഫ്രിഞ്ച്ലെ പ്രത്യേക സവിശേഷതകൾ നോക്കാനും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഫ്രിഞ്ച്ലെ സവിശേഷതകൾ നോക്കാം ഇതാണ് വിള്ളൽ നമ്മൾ ഇത് ഒരു റഫറൻസ് അക്ഷമായി എടുക്കും ഈ അക്ഷത്തിൽ മുകളിലും താഴെയുമുള്ള ഫ്രിഞ്ച്കൾ സിമട്രിക്ക് ആണ് മുകളിലെ ഫ്രിഞ്ച്കൾ മുന്നോട്ട് ചരിഞ്ഞതാണ് എന്നത് മറ്റൊരു ശ്രദ്ധേയമായ സവിശേഷതയാണ് ഈ ജോമട്രി സവിശേഷത നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക നമ്മൾ സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾ വികസിപ്പിച്ചുകഴിഞ്ഞാൽ സിഗ്മ 1 മൈനസ് സിഗ്മ 2 ന്റെ കോൺണ്ടറുകൾ പ്ലോട്ട് ചെയ്യും കൂടാതെ ഫ്രിഞ്ച് പാറ്റേണുകളുമായി താരതമ്യപ്പെടുത്തി നമ്മൾ നേടുന്നതെന്താണെന്ന് കാണുക അത്തരമൊരു നിമിഷം വരെ നമുക്ക് കാത്തിരിക്കാം ചരിത്രപരമായ വികസനം ഇംഗ്ലിസ് ഗ്രിഫിത്ത് ഇർവിൻ എന്നിവരുടെ സംഭാവനകൾ ഇനി നമുക്ക് പോയി ചരിത്രപരമായ വികസനത്തിലേക്ക് തിരിഞ്ഞുനോക്കാം ഇംഗ്ലിസിസ് നടത്തിയ പഠനത്തിലെ ഒരു ടെൻഷൻ സ്ട്രിപ്പിലെ എലിപ്റ്റിക്കൽ ദ്വാരങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 1913 ലാണ് ഇത് ചെയ്തത് കൂടാതെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ഊന്നൽ എന്തായിരുന്നു നിങ്ങൾ ചരിത്രം നോക്കുകയാണെങ്കിൽ സ്ട്രെസ് കോൺസെൻട്രേഷനിലേക്ക് നയിക്കുന്ന ആദ്യത്തെ പ്രശ്നം കിർഷ് പരിഹരിച്ചു 1898 ലായിരുന്നു അത് ചെറിയ വൃത്താകൃതിയിലുള്ള ദ്വാരമുള്ള അനന്തമായ പ്ലേറ്റിന്റെ പ്രശ്നം അദ്ദേഹം പരിഹരിച്ചു പോളാർ കോർഡിനേറ്റുകളും കാർട്ടീഷ്യൻ ചതുരാകൃതിയിലുള്ള കോർഡിനേറ്റുകളും നിങ്ങൾ വികസിപ്പിച്ചതിനാൽ ഇത് സാധ്യമായിരുന്നു അതിനാൽ ഒരു പോളാർ കോർഡിനേറ്റിൽ നിന്ന് ദ്വാരം മാതൃകയാക്കാം ദ്വാരത്തിലെ അതിർത്തി അവസ്ഥ നിങ്ങൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും ദ്വാരത്തിലെ അതിർത്തി അവസ്ഥ നിങ്ങൾക്ക് എളുപ്പത്തിൽ വ്യക്തമാക്കാൻ കഴിയും അതിനാൽ ഒരു ടെൻഷൻ സ്ട്രിപ്പിലെ വൃത്താകൃതിയിലുള്ള ദ്വാരത്തിന്റെ കാര്യത്തിൽ കിർഷ് ആദ്യ പ്രശ്നം പരിഹരിച്ചു കൂടാതെ ഒരു എലിപ്റ്റിക്കൽ ദ്വാരത്തിനായി ഇംഗ്ലിസിന് പോയി ഇത് ആവർത്തിക്കാൻ ഏകദേശം പതിനഞ്ച് വർഷമെടുത്തു അതിനാൽ നിങ്ങൾ ഒരു എലിപ്റ്റിക്കൽ ദ്വാരത്തിലേക്ക് പോകുമ്പോൾ ദ്വാരത്തിന്റെ അതിർത്തിയിലുള്ള അതിർത്തി വ്യവസ്ഥകൾ നിങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് കൂടാതെ പ്രശ്നം എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ അവർക്ക് എലിപ്റ്റിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം വികസിപ്പിക്കേണ്ടതുണ്ട് അത് ഒരു വിള്ളലിന്റെ പ്രാധാന്യത്തിനു സൂചന നൽകി നമുക്ക് വളരെ സൂക്ഷ്മമായി നോക്കാം ഇതിന്റെ ഒരു രേഖാചിത്രം നിങ്ങൾ തയ്യാറാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇത് ഒരു പരിമിത സ്ക്രീനിൽ കാണിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഇത് ഒരു ചെറിയ എലിപ്റ്റിക്കൽ ദ്വാരമുള്ള അനന്തമായ പ്ലേറ്റാണെന്ന് സങ്കൽപ്പിക്കുക പക്ഷേ ഇത് വ്യക്തതയ്ക്കായി വലുതായി കാണിക്കുന്നു കൂടാതെ ഇവിടെ ഒരു ചെറിയ പിക്സിലേഷൻ പിശകും ഉണ്ട് ചിത്രം വലുതാക്കുന്നു അതിനാൽ ഇതിൽ ഒരു മാറ്റമുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തി ഇത് ഒരു നേർരേഖയായി നിങ്ങൾ സങ്കൽപ്പിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് ഒരു ടെൻഷൻ സ്ട്രിപ്പിൽ ഒരു എലിപ്റ്റിക്കൽ ദ്വാരം ഉണ്ട് കൂടാതെ ഈ അക്ഷത്തിലെ സ്ട്രെസ്ൻറെ സാധാരണ വ്യതിയാനം ഇത് കാണിക്കുന്നു കൂടാതെ നിങ്ങൾക്ക് സിഗ്മ x x ന്റെ വ്യത്യാസമുണ്ട് ഇംഗ്ലിസ് കണ്ടെത്തിയത് ഇത് വിദൂര ഫീൽഡ് സ്ട്രെസുമായി ഒരു ഘടകം 1 പ്ലസ് 2 a ബൈ b വഴി ബന്ധപ്പെട്ടിരിക്കുന്നു സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് കോഴ്സിൽ നിങ്ങൾ ഇത് കേട്ടിരിക്കാം b 0 ആകുന്ന നിമിഷം ഗുണന ഘടകം അനന്തതയിലേക്ക് പോകുന്നു സ്ട്രെസ് വളരെ ഉയർന്നതാണെന്നതാണ് ഒരു അർത്ഥം മറ്റൊരു അർത്ഥം ഒരു വിള്ളലിന് കാരണമാകുന്ന സ്ട്രെസ് കോൺസെൻട്രേഷൻറെ രീതിയാണ് ഇനിമേൽ സാധുതയില്ല ഒരു വിള്ളലിന്റെ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിന് നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഗണിതശാസ്ത്ര സമീപനങ്ങൾ ആവശ്യമാണ് കൂടാതെ ഒരു എലിപ്റ്റിക്കൽ ദ്വാരത്തിന്റെ പ്രയോജനം എന്താണ് ചെറിയ അക്ഷം മാറ്റിക്കൊണ്ട് പരിഹാരം ശരിയാണോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും ഒരു എലിപ്റ്റിക്കൽ ദ്വാരത്തിന്റെ എക്സ്ട്രീം കേസുകൾ ഞാൻ ചെറിയ അക്ഷത്തെ പ്രധാന അക്ഷത്തിന് തുല്യമാക്കുകയാണെങ്കിൽ ഒരു വൃത്താകൃതിയിലുള്ള ദ്വാരമുള്ള ഒരു പ്ലേറ്റിന്റെ പ്രശ്നം എനിക്ക് ലഭിക്കും നിങ്ങൾ b a യ്ക്ക് തുല്യമാക്കുകയാണെങ്കിൽ ഇത് 3 ലേക്ക് പോകുന്നു 1898 ൽ കിർഷ് നേടിയത് ഇതാണ് നിങ്ങൾക്ക് ഒരു വൃത്താകൃതിയിലുള്ള ദ്വാരം ഉള്ളപ്പോൾ പരമാവധി സ്ട്രെസ് ഫാർ ഫീൽഡ് സ്ട്രെസ്ൻറെ മൂന്നിരട്ടിയാണ്

അതിനാൽ സ്ട്രെസ് കോൺസൺട്രേഷൻ ഫാക്ടർ 3 ആണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കൂടാതെ ഒരു എലിപ്റ്റിക്കൽ ദ്വാരത്തിന് നിങ്ങൾക്ക് സ്ട്രെസ് കോൺസൺട്രേഷൻ ഫാക്ടർ കണക്കാക്കാം b 0 ആക്കുന്ന നിമിഷം നിങ്ങൾക്ക് ഒരു വിള്ളലിന്റെ മോഡലിംഗ് ഉണ്ട് ഇവിടെ സംഗ്രഹിക്കുന്നത് അത്തരമൊരു പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിന് ഒരാൾക്ക് പുതിയ സമീപനങ്ങൾ ആവശ്യമാണ് നമുക്ക് ഇപ്പോൾ തിരിച്ചു വരാം എനിക്ക് ദ്വാരമുള്ള ഒരു പ്ലേറ്റ് ഉണ്ടെന്ന് കരുതുക നിങ്ങൾക്ക് സ്ട്രെസ് കോൺസെൻട്രേഷൻ മാത്രമേ ഉണ്ടാകൂ സ്ട്രെസ് പരമാവധി മൂല്യങ്ങളിൽ എത്തുന്നതുവരെ പരാജയം സംഭവിക്കില്ല മറുവശത്ത് എനിക്ക് ഒരു വിള്ളൽ ഉണ്ടാകുമ്പോൾ അത് എന്താണ് കാണിക്കുന്നത് മൂല്യങ്ങൾ അനന്തതയിലേക്ക് പോകുന്നു

വാസ്തവത്തിൽ ഒന്നിനും അനന്തതയിലേക്ക് പോകാൻ കഴിയില്ല പരമാവധി സ്ട്രെസ്ന് പ്ലാസ്റ്റിക് അവസ്ഥയിലെത്താൻ കഴിയും ഇതാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഇംഗ്ലിസിന്റെ നേരിട്ടുള്ള വ്യാഖ്യാനം നിങ്ങളെ ഭയപ്പെടുത്തും എനിക്ക് ഒരു വിള്ളൽ ഉണ്ടെങ്കിൽ ഒന്നും ഘനരൂപത്തിൽ തുടരാനാവില്ല കാരണം വളരെ ചെറിയ ഒരു ലോഡിന് പോലും നിങ്ങൾക്ക് അനന്തമായ സ്ട്രെസ് ഉണ്ടാകും ഇത് ക്രമേണ കഷണങ്ങളായി വിഘടിച്ചേക്കാം പക്ഷേ നിങ്ങൾ കാണുന്ന രീതി അതല്ല വാസ്തവത്തിൽ നിങ്ങൾക്ക് ഘടനകളുണ്ട് അവയ്ക്കുള്ളിൽ വിള്ളലുകൾ ഉണ്ട് പക്ഷേ അവ ഘടനയെ ഒരു പൊടിയായി മാറ്റുന്നില്ല നിങ്ങൾ അതിന്റെ മുഖത്ത് നോക്കുകയാണെങ്കിൽ ഇംഗ്ലിസ് ഫലം കാണിക്കുന്നത് അതാണ് എന്തുകൊണ്ടാണ് ഘടനകൾ വിള്ളലുകളുമായി നിലനിൽക്കുന്നത് എന്ന് വിശദീകരിക്കാൻ ഗ്രിഫിത്തിന് ഒരു സിദ്ധാന്തം കൊണ്ടുവരാൻ കഴിഞ്ഞു വിള്ളൽ വളരാൻ നിങ്ങൾക്ക് ഒരു ഊർജ്ജം ആവശ്യമാണ് 1920 ൽ ഗ്രിഫിത്തിന്റെ സംഭാവന അതായിരുന്നു ഗ്ലാസിലെ വിള്ളലുകൾ പ്രചരിക്കുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് പ്രത്യേക താത്പര്യമുണ്ടായിരുന്നു ക്രാക്ക് വളർച്ചയ്ക്ക് ശരിയായ ആശയങ്ങൾ വികസിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇത് വളരെ പ്രധാനമാണ് അദ്ദേഹത്തിന് ആഴത്തിൽ ഇറങ്ങാനും ഇംഗ്ലിസ് പരിഹാരം വളരെ പ്രധാനമാണെന്ന് പറയാനും കഴിഞ്ഞു വിള്ളൽ കൂടുതൽ അപകടകരമാണെന്ന് ഇത് മുന്നറിയിപ്പ് നൽകി പക്ഷേ നിങ്ങൾക്ക് വിള്ളൽ ഉള്ള ഘടനകൾ ഉണ്ടെന്ന് ഒരു യുക്തിസഹമായ വിശദീകരണം ഇത് നൽകി ഇതിന് ഒരു വിള്ളൽ ഉള്ളതിനാൽ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതില്ല വിള്ളലുകൾ ഉപരിതലത്തിൽ വളരും നിർണായക അളവ് കൈവരിക്കും അപ്പോൾ മാത്രമേ ഒടിവുണ്ടാകൂ കൂടാതെ ധാരാളം പ്രായോഗിക കേസുകൾ നമ്മൾ കാണും നിങ്ങൾ വിശദമായി നോക്കുമ്പോൾ ചെയ്യുമ്പോൾ ഒടിവുണ്ടായതിന് ശേഷം ഒരു വിള്ളൽ വളർച്ചാ പ്രദേശം നിങ്ങൾക്കു കാണാനാകും അതിനാൽ 1920 ൽ ഗ്രിഫിത്തിന്റെ സംഭാവന വളരെ പ്രധാനമായിരുന്നു ഞാൻ സൂചിപ്പിച്ചതുപോലെ നിലവിലുള്ള ഒരു വിള്ളൽ വളരുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു എന്നാൽ സിസ്റ്റത്തിന്റെ മൊത്തം ഊർജ്ജം അതിന്റെ വളർച്ച മൂലം കുറയുന്നു അതിനാൽ നിലവിലുള്ള വിള്ളൽ വളരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒടുവിൽ അത് ഗുരുതരമാകുമ്പോൾ ഒടിവ് സംഭവിക്കും എന്നാൽ നിങ്ങൾക്ക് ഒരു വിള്ളൽ ഉണ്ടാകുമ്പോൾ ഏറ്റവും ചെറിയ ലോഡ് പോലും പ്രയോഗിക്കുമ്പോൾ ഈ ഘടന പരാജയപ്പെടും അത് അങ്ങനെയല്ല ഇംഗ്ലിസിന്റെ സംഭാവന നിങ്ങൾ അഭിനന്ദിക്കണം വിള്ളൽ കൂടുതൽ അപകടകരമാണെന്ന് വിശകലനപരമായി പുറത്തുകൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ആശയങ്ങൾ രൂപപ്പെടുത്താൻ ഗ്രിഫിത്തിന് കഴിഞ്ഞുവെങ്കിലും ലോകമഹായുദ്ധത്തിന്റെ സ്ഥിതിഗതികൾ കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അക്കാലത്ത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല അത് സംഭവിക്കാം ആരെങ്കിലും ശാസ്ത്രീയമായി പ്രവർത്തിക്കുമ്പോൾ എല്ലായിടത്തും സമാധാനമുണ്ടെങ്കിൽ മാത്രമേ സംഭാവന എന്താണെന്ന് ആളുകൾ ശ്രദ്ധിക്കു ലോകമഹായുദ്ധത്തിനുശേഷം ഒരു മാന്ദ്യം ഉണ്ടായിരുന്നു അതിനാൽ ആളുകൾ ദൈനംദിന ജീവിതത്തെക്കുറിച്ച് ആശങ്കാകുലരായിരുന്നു അവർ ശരിക്കും ശാസ്ത്രത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നില്ല അതിനാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടില്ല ഇതിന് മറ്റൊരു വശമുണ്ട് ഗ്രിഫിത്തിന് ഒരു സൌകര്യപ്രദമായ പാരാമീറ്റർ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല ശാസ്ത്രത്തിന്റെയോ കലയുടെയോ ഏതെങ്കിലും മേഖലയുടെ വികസനത്തിന് നിങ്ങൾ പദപ്രയോഗങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട് പദപ്രയോഗങ്ങൾ വളരെ പ്രധാനമാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ പദപ്രയോഗം കേൾക്കുന്ന നിമിഷം അത് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും നിങ്ങൾ ഒരു സൌകര്യപ്രദമായ പാരാമീറ്റർ നിർമ്മിക്കേണ്ടതുണ്ട് അതുവരെ ഫ്രാക്ചർ ആളുകൾ നോക്കിയില്ല ആ സംഭാവന ചെയ്തത് ഇർവിൻ ആണ് അത് 1948 ൽ ആയിരുന്നു അതിനാൽ 1920 അല്ലെങ്കിൽ 22 ൽ ഗ്രിഫിത്ത് ഈ പരീക്ഷണങ്ങളെല്ലാം ചെയ്തു 1948 ൽ മാത്രം ഇർവിൻ ഇത് ഡക്റ്റൈൽ മെറ്റീരിയലുകളിലേക്ക് നീട്ടി ഗ്രിഫിത്ത് ചെയ്ത ജോലികൾ എല്ലാം ഗ്ലാസിലായിരുന്നു അതിനാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലിസിന്റെ സംഭാവനയും വളരെ പ്രധാനമാണ് ഗ്രിഫിത്തിനെക്കുറിച്ചുള്ള ധാരണ നല്ലതാണ് വിള്ളൽ വളർച്ചയെക്കുറിച്ച് അദ്ദേഹത്തിന് ശരിയായ ആശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അത് സൌകര്യപ്രദമായ രീതിയിൽ പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഗ്ലാസിലെ ഫ്രാക്ചർന്റെ വിവിധ ഫലങ്ങൾ നമുക്ക് വളരെ രസകരമായ ചില ഉദാഹരണങ്ങൾ നോക്കാം ഈ ആനിമേഷൻ കാണുകയും ഈ ആനിമേഷൻ എന്താണ് കാണിക്കാൻ ശ്രമിക്കുന്നതെന്ന് തിരിച്ചറിയുകയും ചെയ്യുക ഇപ്പോൾ നിങ്ങൾ അത് കണ്ടു ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ പ്ലേറ്റിൽ ഒരു വിള്ളൽ ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ പിന്നെ എന്ത് സംഭവിക്കും ഇത് യഥാർത്ഥത്തിൽ ഒരു ബോൾ പേനയാണ് നിങ്ങൾ അത് അമർത്തുമ്പോൾ വിള്ളലിന് എന്ത് സംഭവിക്കും വിള്ളൽ നീളത്തിൽ വളരുന്നു ഞാൻ ലോഡ് നീക്കം ചെയ്യുന്ന നിമിഷം വിള്ളൽ ഭേദപ്പെടുത്തുന്നതിനുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നതായി നിങ്ങൾ കണ്ടെത്തുന്നു വാസ്തവത്തിൽ മൈക്ക ഗ്ലാസ് പോലുള്ള ബ്രിട്ടിൽ വസ്തുക്കളിൽ ലോഡുകൾ നീക്കംചെയ്യുമ്പോൾ വിള്ളൽ മാറുന്നതായി ഗ്രിഫിത്ത് നിരീക്ഷിച്ചു ഇത് നമുക്ക് വളരെ ഗുണകരമാണ് എനിക്ക് പോയി ഒരു ഊർജ്ജ രീതി ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് കരുതുക എനിക്ക് റിവേർസിബിൾ പ്രോസസ് ഉണ്ടെങ്കിൽ സമവാക്യങ്ങൾ രൂപപ്പെടുത്തുന്നത് എളുപ്പമാണ് നിങ്ങൾ ഫ്രാക്ചർ നോക്കുകയാണെങ്കിൽ അത് ആന്തരികമായി നോൺ റിവേഴ്സ്സിബിൾ ആണ് കാരണം ഒരു യഥാർത്ഥ ഖരരൂപത്തിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് രൂപഭേദം സംഭവിക്കും ഊർജ്ജം പുറന്തള്ളപ്പെടുകയും നിങ്ങൾക്ക് യഥാർത്ഥ അവസ്ഥയിലേക്ക് മടങ്ങിവരാനും കഴിയില്ല വളരെ ബ്രിട്ടിൽ സോളിഡുകളിൽ വിള്ളൽ ഭേദമാക്കാൻ അനുയോജ്യമായ സാഹചര്യങ്ങൾ ആളുകൾ കണ്ടെത്തി ഊർജ്ജ പ്രകാശന നിരക്ക് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ വിള്ളൽ വളരാൻ ആവശ്യമായ ഊർജ്ജം എന്താണ് എന്ന് കണ്ടെത്തണം ഞാൻ അത് അടയ്ക്കാൻ പോകുന്നു അടയ്ക്കാൻ ആവശ്യമായ ഊർജ്ജം കണ്ടെത്തുക വിള്ളൽ വളരാൻ ആവശ്യമായ ഊർജ്ജം എന്താണെന്ന് കണ്ടെത്താൻ ഞാൻ ഇത് ഉപയോഗിക്കും ഇത്തരത്തിലുള്ള ഒരു ഗണിതശാസ്ത്ര കൃത്രിമത്വത്തിലേക്ക് പോകാൻ ഇത് സഹായിക്കുന്നു വാസ്തവത്തിൽ ഇത് ഞങ്ങളുടെ ലബോറട്ടറിയിൽ ഉണ്ടായ ഒരു അപകടമായിരുന്നു ഞാൻ അത് വേഗത്തിൽ റെക്കോർഡുചെയ്ത് കോഴ്സ് മെറ്റീരിയലിന്റെ ഭാഗമായി ഉൾപ്പെടുത്തി ഞാൻ ഒരു ഉദാഹരണം കൂടി എടുക്കാം ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് പ്ലേറ്റ് കാണിക്കുന്നു ഞാൻ ഈ സ്ഥലത്ത് ഒരു കല്ലെറിഞ്ഞു അത് തകർന്നു എന്നിട്ട് ഞാൻ സെലോഫെയ്ൻ ടേപ്പ് ഉപയോഗിച്ച് അവയെ ഒന്നിപ്പിച്ച് ഗ്ലാസിലേക്ക് കൊണ്ടുവന്നു നിങ്ങൾ ഇവിടെ എന്താണ് കാണുന്നത് ഒരു കല്ല് ഇടുന്നതിലൂടെ ഞാൻ ഈ ഗ്ലാസിലേക്ക് ഊർജ്ജം പമ്പ് ചെയ്യുകയും ഗ്ലാസിന് ഊർജ്ജം പുറന്തള്ളുകയും വേണം ഇത് എന്ത് വഴിയാണ് ചെയ്തത് നിങ്ങൾ അത് അന്തർഭാഗത്ത് ചില മെറ്റീരിയലുകൾ നീക്കംചെയ്തു കൂടാതെ നിങ്ങൾക്ക് നിരവധി ശാഖകളുമുണ്ട് ഇത് വളരെ പ്രധാനമാണ് ഞാൻ ഒരു ഫ്രാക്ചർ സിദ്ധാന്തം വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഫ്രാക്ചർ സിദ്ധാന്തത്തിന് എത്ര വിള്ളലുകൾ ഉണ്ടെന്ന് പറയാൻ കഴിയണം ഏത് ദിശയിൽ വികസിക്കുകയും വളരുകയും ചെയ്യും നമുക്ക് അത്തരത്തിലുള്ള ഉത്തരം ഉണ്ടായിരിക്കണം ഒരു സാധാരണക്കാരൻ ഗ്ലാസ് തകർന്നുവെന്ന് മാത്രമേ പറയൂ ഗ്ലാസ് മാറ്റി സ്ഥാപിക്കണം ഒരു ശാസ്ത്രജ്ഞൻ ഊർജ്ജം എങ്ങനെ വ്യാപിച്ചു എത്ര വിള്ളൽ ശാഖകൾ വന്നു ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ചിന്തിക്കണം ഞാൻ ഒരു ഉദാഹരണം കൂടി കാണിക്കും ഈ ആനിമേഷൻ നിങ്ങൾ കാണുക ഇത് വീണ്ടും ഒരു ഗ്ലാസ് ഷീറ്റിലാണ് ഞാൻ ആനിമേഷൻ വീണ്ടും ആവർത്തിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നൽകുന്നു എനിക്ക് ഒരു വിള്ളൽ ഉണ്ടായിരുന്നു അത് ഒരു പ്രത്യേക വേഗതയിലായിരുന്നു പെട്ടെന്ന് അത് രണ്ട് വിള്ളലുകളായി വിഭജിക്കുന്നു ഞാൻ ആനിമേഷൻ ആവർത്തിക്കും നിങ്ങൾ അത് നിരീക്ഷിക്കുക വിള്ളലിന്റെ വേഗത വർദ്ധിക്കുന്നു പെട്ടെന്ന് അത് രണ്ടായി മാറുന്നു അതിനാൽ ഫ്രാക്ചർ മെക്കാനിക്സ് കാഴ്ചപ്പാടിൽ നിങ്ങൾ എന്താണ് നോക്കേണ്ടത് ഞാൻ ഒരു ഫ്രാക്ചർ സിദ്ധാന്തം വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് വിള്ളൽ ശാഖകൾ ഉണ്ടാകുന്നതെന്ന് പറയാൻ ഫ്രാക്ചർ സിദ്ധാന്തത്തിന് കഴിയണം വാസ്തവത്തിൽ നിങ്ങൾ ആനിമേഷൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വിള്ളൽ വേഗത വർദ്ധിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കൈനറ്റിക് ഊർജ്ജം സാധാരണയിലും കൂടുതൽ ആയിരുന്നു വേഗത വർദ്ധിച്ചുകൊണ്ടിരുന്നു ഇത് ഫോട്ടോഇലാസ്റ്റിക് വിശകലനത്തിലൂടെ സ്ഥാപിക്കപ്പെട്ടു ഡൈനാമിക് ഫോട്ടോഇലാസ്റ്റിസിറ്റി ഉപയോഗിച്ച് വിള്ളലിന് റെയ്ലെയ് തരംഗ വേഗത മാത്രമേ എടുക്കാനാകൂ അതിനേക്കാൾ വേഗത്തിൽ പോകാൻ കഴിയില്ല അതിനാൽ കൂടുതൽ ഊർജ്ജം ഇല്ലാതാക്കാൻ കഴിയില്ല അതിനാൽ കൂടുതൽ ഊർജ്ജം ഇല്ലാതാകണമെങ്കിൽ വിള്ളൽ ശാഖയായി മാറണം അതുകൊണ്ടാണ് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ വികസനവുമായി ഫോട്ടോഇലാസ്റ്റിസിറ്റി വളരെ അടുത്ത ബന്ധമുള്ളതെന്ന് ഞാൻ പറഞ്ഞത് അതിനാൽ ഒരു മെറ്റീരിയലിൽ ഒരു വിള്ളൽ വളരാൻ ഒരു ഉയർന്ന പരിധിയുണ്ട് അത് റെയ്ലേ തരംഗ വേഗതയാണ് തീരുമാനിക്കുന്നത് കൽതോഫ് ആണ് ഇത് ആദ്യമായി ശ്രദ്ധയിൽപ്പെടുത്തിയത് കോസ്റ്റിക്സ് രീതി ഉപയോഗിച്ച് അദ്ദേഹം നിരവധി പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു കോസ്റ്റിക്സ് പരീക്ഷണത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കോസ്റ്റിക് ഷാഡോ ഇവയാണ് നിങ്ങൾക്ക് വീണ്ടും ആനിമേഷൻ നോക്കുക ആനിമേഷൻ വിള്ളൽ വേഗത വർദ്ധിക്കുകയും അത് ശാഖകളാവുകയും ചെയ്യുന്നത് കാണിക്കുന്നു

ഇതിൽ ഫ്രാക്ചർ മെക്കാനിക്സ് നിരവധി വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന വിശാലമായ മേഖലയാണെന്ന് നമ്മൾ ഇതിനകം ശ്രദ്ധിച്ചു നിങ്ങൾക്ക് മെറ്റീരിയൽ സയൻസ് നോൺഡസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് സ്ട്രെസ് അനാലിസിസ് ഡിസൈൻ എന്നിവയുണ്ട് നമ്മൾ ഓരോന്നായി കാണും ഈ ഓരോ വശങ്ങളിലും നിങ്ങൾ എന്താണ് പഠിക്കുക മെറ്റീരിയൽ സയൻസ് ഫ്രാക്ചർ ഉൾക്കൊള്ളുന്നു ഇത് ഒരു ക്ലീവേജ് ഫ്രാക്ചർ അല്ലെങ്കിൽ ഡക്റ്റൈൽ ഫ്രാക്ചർ ഫ്രാക്ചർ പ്രക്രിയ ഫ്രാക്ചർ ടഫ്നെസ് അളക്കുക എന്നിവ മെറ്റീരിയൽ സയൻസ് എന്ന വിഷയത്തിലാണ് ഈ മൂന്ന് വശങ്ങളും വരുന്നത് നോൺഡെസ്ട്രക്റ്റീവ് പരിശോധനയിൽ നിങ്ങൾ ഒരു വിള്ളൽ എങ്ങനെ കണ്ടെത്താം കൂടാതെ വിള്ളൽ എങ്ങനെ നിരീക്ഷിക്കണം എന്നിവ കണ്ടെത്തേണ്ടതുണ്ട് വിള്ളൽ നിരീക്ഷിക്കുന്നതിന് നിങ്ങളുടെ ആനുകാലിക ഇടവേള എന്തായിരിക്കണം ഒടുവിൽ നമ്മൾ സ്ട്രെസ് വിശകലനത്തിലേക്കും രൂപകൽപ്പനയിലേക്കും വരുന്നു ഇതിൽ നിങ്ങൾക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട് നമ്മൾ സ്ട്രെസ് ഫീൽഡ് വികസിപ്പിക്കും ഇത് ഒരു വിവരമായും ഫ്രാക്ചർ ടഫ്നെസ്ക്കുറിച്ചുള്ള വിവരവും ഉപയോഗിച്ചുകൊണ്ട് മെച്ചപ്പെട്ട ഡിസൈൻ രീതിശാസ്ത്രത്തിനായി നമുക്ക് പോകാം ഫ്രാക്ചർ മെക്കാനിക്സ് കേടുപാടുകൾ കുറവുള്ള ഡിസൈൻ സമീപനത്തിന് ഞങ്ങളെ സഹായിക്കുന്നുണ്ട് അതിനാൽ ഇതിൽ നിങ്ങൾക്ക് രണ്ട് പ്രധാന വിഭാഗങ്ങളുണ്ട് ഒന്ന് സുരക്ഷിതമായ ജീവിത രൂപകൽപ്പനയാണ് പരമ്പരാഗത വിശകലനത്തിൽ ആളുകൾ ഫാറ്റിഗ്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അനന്തമായ ആയുസ്സു ലഭിക്കാൻ അവർ ആഗ്രഹിച്ചു അനന്തമായ ആയുസ്സ് സാധ്യമല്ല നമ്മൾ ഇവിടെ പറയുന്നത് പ്രതീക്ഷിച്ച ആയുസ്സിനുള്ളിൽ ഘടന സുരക്ഷിതമായിരിക്കണം ഇതാണ് നമ്മൾ നോക്കുന്നത് അതിനാൽ ഇത് ഒരു വ്യത്യസ്ത സമീപനമാണ് മറ്റൊരു രീതിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആണവ ഊർജ്ജം പോലുള്ള പ്രയാസകരമായ ഇൻസ്റ്റാളേഷനുകൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും അപകടം ദുരന്തത്തിലേക്ക് നയിച്ചാൽ നിങ്ങൾ ഫെയിൽ സേഫ് രൂപകൽപ്പന നടത്താൻ ആഗ്രഹിക്കുന്നു അതിലൊന്നാണ് മൾട്ടിപ്പിൾ ലോഡ് പാത്ത് ഒരു അംഗം പരാജയപ്പെട്ടാൽ മുഴുവൻ ഘടനയും പരാജയപ്പെടാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല ഒരു മികച്ച ഉദാഹരണം നിങ്ങൾ പ്ലേയിംഗ് കാർഡുകളിൽ നിന്ന് ഒരു കോട്ട ഉണ്ടാക്കുന്നുവെന്ന് കരുതുക ആളുകൾക്ക് അത്തരം മത്സരങ്ങളുണ്ട് നിങ്ങൾ പോയി ഒരു കാർഡ് ഊതുക അല്ലെങ്കിൽ നീക്കംചെയ്യുക അപ്പോൾ മുഴുവൻ ഘടനയും തകരും നിങ്ങളുടെ ഘടനാപരമായ സംവിധാനങ്ങൾ ഇതുപോലെ തകരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ഒന്നിലധികം ലോഡ് പാത്ത് ആവശ്യമാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മനുഷ്യശരീരം നോക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് രണ്ട് വൃക്കകൾ നൽകിയിട്ടുണ്ട് ഒരു വൃക്ക പരാജയപ്പെട്ടാൽ നിങ്ങൾക്ക് ഇപ്പോഴും അതിജീവിക്കാൻ കഴിയും മറ്റൊരു വൃക്ക നിങ്ങളെ സഹായിക്കും അതിനാൽ പ്രകൃതിദത്ത സംവിധാനങ്ങളിൽ പോലും ചിലതരം അവശ്യ ആവർത്തനങ്ങളുണ്ട് അന്തർനിർമ്മിതമാണ് അതിനാൽ ഒപ്റ്റിമൈസേഷൻ നോക്കുമ്പോൾ ഒപ്റ്റിമൈസേഷൻ ഒരു പരിധിക്കപ്പുറം നീട്ടരുത് അതിനാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലോഡ് പാത്ത് ആവശ്യമാണ് എനിക്ക് ഒരു വിള്ളൽ ഉണ്ടെന്ന് കരുതുക വിള്ളലിനെ അറസ്റ്റുചെയ്യാനുള്ള രൂപകൽപ്പനയും എനിക്കുണ്ടായിരിക്കണം വിള്ളൽ തടയാൻ നമുക്ക് ചില രീതികൾ ഉണ്ടായിരിക്കണം ഘടന പരാജയപ്പെടുന്നതിന് മുമ്പ് ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരിക്കണം അതിനാൽ നിങ്ങൾക്ക് ലീക്ക് ബിഫോർ ബ്രേക്ക് ചുരുക്കത്തിൽ LBB എന്ന് വിളിക്കുന്ന ഒന്നുണ്ട് ന്യൂക്ലിയർ ടെക്നോളജിയിൽ LBB മാനദണ്ഡം വളരെ പ്രധാനമാണ് ഘടകങ്ങൾ LBB മാനദണ്ഡത്തിലൂടെ കടന്നുപോകുന്നില്ലെങ്കിൽ ന്യൂക്ലിയർ പവർ ഇൻസ്റ്റാളേഷനിൽ ആ ഘടകങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല അതിനാൽ നിങ്ങൾക്ക് സുരക്ഷിതത്വം അനുഭവിക്കാൻ കഴിയും അതിനാൽ ശാസ്ത്രം ഉപയോഗിക്കുന്നു ഇതാണ് നമ്മൾ എല്ലായിടത്തും ഊന്നിപ്പറയുന്നത് ഘടനയിൽ അന്തർലീനമായ കുറവുകൾ ഉണ്ടെന്ന് കണക്കാക്കാൻ ഫ്രാക്ചർ മെക്കാനിക്സ് ശ്രമിക്കുന്നു എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ മോഡലിംഗ് ചെയ്യുന്നതിൽ ഇത് യാഥാർത്ഥ്യത്തോട് അടുക്കുന്നു ഇത് എങ്ങനെ ചെയ്യും സ്ട്രെസ് ഇന്റെൻസിറ്റി ഘടകങ്ങൾ നിർണ്ണയിക്കാൻ ഇത് സ്ട്രെസ് വിശകലനം ഉപയോഗിക്കുന്നു സ്ട്രെസ് ഇന്റെൻസിറ്റി ഘടകങ്ങൾ എന്താണെന്ന് നമ്മൾ ഇപ്പോഴും പരിശോധിച്ചിട്ടില്ല ഫ്രാക്ചർ ടഫ്നെസ് നിർണ്ണയിക്കാൻ നമ്മൾ മെറ്റീരിയൽ സയൻസ് ആശയങ്ങൾ വികസിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യും പ്രാരംഭ ന്യൂനത അളവ് നിർണയിക്കുന്നതിന് നോൺഡസ്ട്രക്റ്റീവ് പരിശോധന ഉപയോഗിക്കുന്നു അതിനാൽ ഇത് വളരെ പ്രധാനമാണ് നമ്മൾ എന്തിനെക്കുറിച്ചാണ് നോക്കുന്നതു നിങ്ങൾ ഒരു നോൺഡസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്നു പറയുമ്പോൾ അതിനു കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ വലുപ്പം എന്താണെന്ന് നമ്മൾ കാണും അതിനാൽ പ്രാരംഭ വിള്ളൽ വലുപ്പം എന്താണെന്ന അനുമാനമായിരിക്കും അത് നമ്മൾ സൈദ്ധാന്തിക കണക്കുകൂട്ടൽ നടത്തും നിങ്ങൾക്ക് മികച്ച നോൺഡെസ്ട്രക്റ്റീവ് പരിശോധന ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രാക്ചർ കണക്കുകൂട്ടൽ പോലും വളരെ മികച്ചതായിരിക്കും അതിനാൽ NDT യുടെ വികസനവും ഒരുപോലെ പ്രധാനമാണ് ആ വിവരങ്ങളെല്ലാം ഉപയോഗിച്ച് സുരക്ഷിതമായ ആയുസ്സ് നൽകുന്നതിന് ഒരു ഘടന രൂപകൽപ്പന ചെയ്യാൻ കഴിയും LEFM EPFM എന്നിവയുടെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ഫ്രാക്ചർ മെക്കാനിക്സിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന രണ്ട് വിശാലമായ വിഭാഗങ്ങളുണ്ട് അതിലൊന്നാണ് ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സ് മറ്റൊന്ന് ഇലാസ്റ്റോപ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സ് ഫ്രാക്ചർ മെക്കാനിക്സ് മുഴുവൻ ഡക്റ്റൈൽ ഹൈ സ്ട്രെങ്ത് അലോയ്കൾ കൊണ്ട് നിർമ്മിച്ച ഘടനകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇത് വളരെ പ്രധാനമാണ് മൈൽഡ് സ്റ്റീൽന് നിങ്ങൾ ഫ്രാക്ചർ മെക്കാനിക്സ് പ്രയോഗിക്കില്ല ഹൈ സ്ട്രെങ്ത് അലോയ്കൾക്ക് മാത്രം ഫ്രാക്ചർ മെക്കാനിക്സ് പ്രയോഗിക്കുന്നു ഹൈ സ്ട്രെങ്ത് അലോയ്കൾ ബ്രിട്ടിൽ രീതിയിൽ പരാജയപ്പെടുന്നു ഇത് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ ജനനത്തിന് കാരണമായി ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ബ്രിട്ടിൽ ഖരപദാർത്ഥങ്ങൾയ്ക്ക് ഗ്രിഫിത്ത് സൃഷ്ടിച്ച ആശയങ്ങൾ എന്തുതന്നെയായാലും 1948 ൽ ഇർവിൻ ഡക്റ്റൈൽ വസ്തുകളിലേക്കും ഹൈ സ്ട്രെങ്ത് വസ്തുകളിലേക്കും വ്യാപിപ്പിച്ചു അദ്ദേഹം അത് എങ്ങനെ ചെയ്തുവെന്ന് നമ്മൾ കാണും എനർജി റിലീസ് റേറ്റിനെക്കുറിച്ചുള്ള അധ്യായം പരിശോധിക്കുമ്പോൾ ഗ്രിഫിത്തിന്റെ ആശയങ്ങൾ വിപുലീകരിക്കാൻ അദ്ദേഹത്തിന് എത്രത്തോളം സൌകര്യപ്രദമായിരുന്നുവെന്ന് കണ്ടെത്താൻ കഴിയും ഗ്രിഫിത്ത് എന്താണ് ചെയ്തത് നിങ്ങൾ ഇംഗ്ലിസ് പരിഹാരം നോക്കുമ്പോൾ വിള്ളൽ വളരെ പ്രധാനമാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതിനാൽ വിള്ളൽ പ്രധാനമാണെന്ന് ആളുകൾ ചിന്തിച്ചിരുന്നു അവർ ആശയങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നില്ല അത് ഇർവിൻ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ശ്രദ്ധ ക്രാക്കിൽ നിന്ന് ക്രാക്ക് ടിപ്പിലേക്ക് മാറ്റി പിന്നെ ഫ്രാക്ചർ മെക്കാനിക്സ് മുഴുവൻ വളരെ ലളിതമായി അദ്ദേഹം എന്താണ് ചെയ്തത് വിശകലനം ക്രാക്ക് ടിപ്പിലേക്ക് മാറ്റുന്നതിലൂടെ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ എനർജി റിലീസ് റേറ്റ് തുടങ്ങിയ പ്രവർത്തനക്ഷമമായ പാരാമീറ്ററുകൾ അദ്ദേഹം ആവിഷ്കരിച്ചു അതിനാൽ ഇർവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന അതായിരുന്നു നമ്മുടെ മുമ്പത്തെ ക്ലാസുകളിലൊന്നിൽ പോലും നിങ്ങൾക്ക് ഒരു വിള്ളൽ ഉണ്ടാകുമ്പോൾ ക്രാക്ക് ടിപ്പ് ഉത്ഭവമായി കണക്കാക്കുന്നുവെന്ന് ഞാൻ കാണിച്ചു ക്രാക്ക് ആക്സിസ് x ആക്സിസായി എടുത്തിട്ടുണ്ട് ഇർവിന്റെ സംഭാവനയിൽ നിന്നാണ് എല്ലാം വരുന്നതു അദ്ദേഹം ഫോക്കസ് ക്രാക്ക് ടിപ്പിലേക്ക് മാറ്റിയതിനാൽ നമുക്ക് സൌകര്യപ്രദമായ പാരാമീറ്ററുകൾ നേടാൻ കഴിഞ്ഞു നിങ്ങൾ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ നോക്കുകയാണെങ്കിൽ ഇതിന് വളരെ രസകരമായ യൂണിറ്റുകളുണ്ട് ഗ്രിഫിത്ത് പറയാൻ ശ്രമിക്കുന്നതിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇർവിൻ പറഞ്ഞത് ആളുകൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഒരു വിള്ളൽ വീണ നിമിഷം നിങ്ങൾക്ക് ഉയർന്ന തോതിലുള്ള സ്ട്രെസ് ഉണ്ടാകുമെന്ന് നമ്മൾ ഇതിനകം പറഞ്ഞിരുന്നു അതിനാൽ തീർച്ചയായും ഒരു പ്ലാസ്റ്റിക് സോൺ വികസിച്ചിട്ടുണ്ട് നിങ്ങൾ LEFM നോക്കുകയാണെങ്കിൽ ഇത് ക്രാക്ക് ടിപ്പിന് സമീപം ചെറിയ തോതിൽ ഈ യീൽഡിങ് നൽകുന്നു ഫ്രാക്ചർ മെക്കാനിക്സിലെ വളരെ പ്രധാനപ്പെട്ട ചുരുക്കമാണ് SSY എന്ന ചുരുക്കെഴുത്ത് അതിനാൽ നിങ്ങൾ SSY സന്ദർശിക്കുമ്പോൾ ഇത് ചെറിയ തോതിലുള്ള യീൽഡിങ്നെ സൂചിപ്പിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് വളരെ പ്രാദേശികവൽക്കരിച്ച പ്ലാസ്റ്റിക് സോൺ ഉണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങൾ ഇംഗ്ലിസ് ഫലം നേരിട്ട് നീട്ടുകയാണെങ്കിൽ നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകും ഈ ഘടന ഒരു പൊടിയായി മാറുമായിരുന്നു ഇത് ഇപ്പോഴും ദൃഢമായി നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് ആ വിശദീകരണം ഗ്രിഫിത്ത് മാത്രമാണ് നൽകിയത് പ്രായോഗിക കാഴ്ചപ്പാടിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ഉയർന്ന സ്ട്രെസ്കളുണ്ടെങ്കിലും അത് അനന്തമായി മാറാൻ കഴിയില്ല ഇത് ഒരു ഇലാസ്റ്റോ പ്ലാസ്റ്റിക് വസ്തുവാണെങ്കിൽ അത് ഒന്നുകിൽ പ്ലാസ്റ്റിക്ക് ആകും അല്ലെങ്കിൽ അതിന് കുറച്ച് വർക്ക് ഹാർഡനിങ് ഉണ്ടാകും ചിലതിൽ അത്തരം വശം സംഭവിക്കും നിങ്ങൾക്ക് അവിടെ അനന്തമായ സ്ട്രെസ് ഉണ്ടാകില്ല പക്ഷേ പ്ലാസ്റ്റിക് സോൺ വളരെ പ്രാദേശികവൽക്കരിച്ചിരിക്കുന്നു ഇത് വളരെ പ്രാദേശികവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ LEFM ബാധകമാണ് ഇത് ചെറുതായി വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ EPFM നായി പോകേണ്ടിവരും പ്ലാസ്റ്റിക് സോണിനെ അടിസ്ഥാനമാക്കി LEFM EPFM എന്നിവയെ നമ്മൾ തരംതിരിക്കും നിങ്ങൾ പ്രധാനമായും നേർത്ത ഘടനകൾ ഉപയോഗിക്കുന്നതിനാൽ LEFM ന്റെ ഉപയോഗം എയ്റോസ്പേസ് ഘടനയിൽ കാണപ്പെടുന്നു വലിയതോതിൽ ഇത് ഒരു തമ്പ് റൂൾളിന് സമാനമാണ് ചില എയ്റോസ്പേസ് ഘടകങ്ങളിൽ നിങ്ങൾക്ക് EPFM ആവശ്യമാണ് എയ്റോസ്പേസ് ഘടനകൾക്ക് വലിയതോതിൽ LEFM ബാധകമാണ്

പ്ലാസ്റ്റിക് രൂപഭേദം അടിസ്ഥാനമാക്കി ഞാൻ സൂചിപ്പിച്ചതുപോലെ ക്രാക്ക് ടിപ്പിലെ പ്ലാസ്റ്റിക് രൂപഭേദം ഉയർന്നതാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് EPFM ആണ് ന്യൂക്ലിയർ ആപ്ലിക്കേഷനുകൾ പോലെ മെറ്റീരിയൽ സ്വഭാവം ലീനിയർ അല്ലാത്ത സാഹചര്യങ്ങളിൽ EPFM അത്യാവശ്യമാണ് ഏത് മെറ്റീരിയലാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് LEFM EPFM എന്നിവ തരംതിരിക്കാം കൂടാതെ ഈ സ്ലൈഡുകളുടെ കുറിപ്പുകൾ നിങ്ങൾ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ പ്രസിപ്പിറ്റഷൻ ഹാർഡൻഡ് അലുമിനിയം ഗ്ലാസ് സംക്രമണ താപനിലയ്ക്ക് താഴെയുള്ള പോളിമറുകൾ സെറാമിക്സ് സെറാമിക് മിശ്രിതങ്ങൾ എന്നിവ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ LEFM ഉപയോഗിക്കുക ഈ മെറ്റീരിയലുകൾക്കെല്ലാം നിങ്ങൾക്ക് സുഖമായി LEFM ശ്രമിക്കാം അത് പരാജയപ്പെട്ടാൽ EPFM നായി പോകുക ഇതെല്ലാം തമ്പ് നിയമങ്ങളാണ് ഇവയെല്ലാം കർശനമായ നിയമങ്ങളല്ല ഇത് വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഇത് മാതൃകയുടെ കനം അനുസരിച്ചായിരിക്കും പക്ഷേ ഇത് കൂടുതൽ സമാനമാണ് എനിക്ക് ഹൈ സ്ട്രെങ്ത് അലോയ് ഉള്ളപ്പോൾ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും ഈ ദിവസങ്ങളിൽ പോളിമറുകളും വളരെ പ്രാധാന്യമർഹിക്കുന്നു പോളിമറുകൾ വളരെ പ്രാധാന്യമർഹിക്കുമ്പോൾ LEFM അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഏത് അവസ്ഥ വരെ വിശകലനം ചെയ്യാൻ കഴിയുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഗ്ലാസ് സംക്രമണ താപനിലയേക്കാൾ താഴെയുള്ള പോളിമറുകൾ നമ്മൾ കാണുന്നു നിങ്ങൾക്ക് LEFM ഉപയോഗിക്കാം ഇത് ഗ്ലാസ് സംക്രമണ താപനിലയ്ക്ക് മുകളിലാണെങ്കിൽ നിങ്ങൾ EPFM നായി പോകേണ്ടിവരും മെറ്റീരിയലുകളും അപ്ലിക്കേഷനുകളും അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഒരു മാർഗ്ഗനിർദ്ദേശമുണ്ട് കർശനമായി ഒന്നായി എടുക്കുന്നതിന് പകരം ഇത് ഒരു മാർഗ്ഗനിർദ്ദേശമായി നാം എടുക്കേണ്ടിവരും ലോ മീഡിയം സ്ട്രെങ്ത് സ്റ്റീല് ഉയർന്ന താപനിലയിലുള്ള ലോഹങ്ങൾ അല്ലെങ്കിൽ ഉയർന്ന സ്ട്രെസ് നിരക്ക് എന്നിവയാണ് EPFM അല്ലെങ്കിൽ നോൺ ലീനിയർ ഫ്രാക്ചർ മെക്കാനിക്സ് ബാധകമാകുന്ന സാധാരണ വസ്തുക്കൾ ഇവയെല്ലാം വളരെ പ്രാധാന്യമർഹിക്കുന്നു ബോംബ് സ്ഫോടനം മൂലം ഘടനകളുടെ സുരക്ഷ കണ്ടെത്താൻ ആളുകൾ ആഗ്രഹിക്കുമ്പോൾ ഉയർന്ന സ്ട്രെസ് നിരക്ക് വളരെ പ്രധാനമാണ് ഇവയെല്ലാം വളരെ ഉയർന്ന സ്ട്രെസ് നിരക്കിലാണ് സംഭവിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് ശരിയായ മോഡലിംഗ് ആവശ്യമാണ് പ്രത്യേകിച്ചും ആണവ ഇൻസ്റ്റാളേഷനുകൾ ഒരു ബോംബ് ആക്രമണത്തിൽ നിന്ന് സുരക്ഷിതമായിരിക്കണം പോളിമറുകൾ ഗ്ലാസ് സംക്രമണ താപനിലയ്ക്ക് മുകളിലാണ് സെറാമിക്സ് ഉയർന്ന താപനിലയിലാണ് കാരണം ഗ്യാസ് ടർബൈനുകളിൽ ആളുകൾ താപ കാര്യക്ഷമത മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഓപ്പറേറ്റിംഗ് താപനില കഴിയുന്നത്ര ഉയരത്തിലേക്ക് ഉയർത്താൻ അവർ ആഗ്രഹിക്കുന്നു സെറാമിക്സ് ഉപയോഗിക്കുന്നു സെറാമിക് അടിസ്ഥാനപരമായി ഒരു ബ്രിട്ടിൽ വസ്തുവാണ് പക്ഷേ ഉയർന്ന താപനിലയിലുള്ള പ്രയോഗത്തിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ LEFM പര്യാപ്തമല്ല നിങ്ങൾ EPFM ഉപയോഗിക്കേണ്ടതുണ്ട് ഇത് വീണ്ടും ഒരു മാർഗ്ഗനിർദ്ദേശമാണ് അതിനാൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ നോക്കുന്നത് പ്ലാസ്റ്റിക് സോണിനെ അടിസ്ഥാനമാക്കി LEFM EPFM എന്നിവ തരം തിരിക്കും കൂടാതെ ചില ആശയങ്ങളും നിങ്ങൾക്ക് ലഭിക്കും

പ്ലാസ്റ്റിക് സോൺ വളരെ ചെറുതും വളരെ പ്രാദേശികവൽക്കരിച്ചതുമാണ് കൂടാതെ പ്ലാസ്റ്റിക് സോണിന്റെ സ്വഭാവം എന്തായിരിക്കുമെന്നതിന്റെ ഒരു ചെറിയ ചിത്രരൂപം ഇത് കാണിക്കുന്നു കൂടാതെ പ്ലെയിൻ സ്ട്രെയിനിൽ ഹൈ സ്ട്രെങ്ത് മെറ്റീരിയലിനായി എനിക്ക് ഇത് ഉണ്ട് തുടർന്ന് പ്ലെയിൻ സ്ട്രെസിൽ എനിക്ക് ഹൈ സ്ട്രെങ്ത് മെറ്റീരിയൽ ഉണ്ട് നിങ്ങൾ ഇത് ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുകയാണെങ്കിൽ ഒരു പ്ലെയിൻ സ്ട്രെയിനിന്റെ കാര്യത്തിൽ പ്ലാസ്റ്റിക് സോൺ വളരെ ചെറുതാണ് ഒരു പ്ലെയിൻ സ്ട്രെസ് അപേക്ഷിച്ച് പരമ്പരാഗത രൂപകൽപ്പനയിൽ മെറ്റീരിയൽ യീൽഡ് ചെയ്യുന്നുവെങ്കിൽ അത് പരാജയമാണെന്ന് നിങ്ങൾ കരുതുന്നു പരാജയം എന്താണെന്ന് നിങ്ങൾ നിർവചിക്കുന്നതിനുമുമ്പ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ മനസിലാക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഇതിനകം പറഞ്ഞിട്ടുണ്ട് ആപ്ലിക്കേഷനെ ആശ്രയിച്ച് ഒരു പരാജയത്തിന്റെ അർത്ഥമെന്താണെന്ന് നിങ്ങൾ സ്ഥാപിക്കുന്നു തുടർന്ന് ഡിസൈൻ നോക്കുക ഫ്രാക്ചർ മെക്കാനിക്സിൽ ഒരു വിള്ളൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ക്രാക്ക് ടിപ്പിൽ പ്ലാസ്റ്റിക് സോൺ ഉണ്ടാകും പ്ലാസ്റ്റിക് സോൺ വളരെ പ്രാദേശികവൽക്കരിച്ചിരിക്കുന്നു വാസ്തവത്തിൽ ഒരു പ്ലെയിൻ സ്ട്രെസ് അവസ്ഥയിലെന്നപോലെ പ്ലാസ്റ്റിക് സോൺ അല്പം വ്യാപിക്കുകയാണെങ്കിൽ ഫ്രാക്ചർ മെക്കാനിക്സ് കാഴ്ചപ്പാടിൽ ഇത് പ്രയോജനകരമാണ് ഘടന മൊത്തത്തിൽ ഇപ്പോഴും ബ്രിട്ടിൽ ആയി തുടരും നിങ്ങൾ ലോഡ് പ്രയോഗിക്കുമ്പോൾ അതിന് ഇലാസ്റ്റിക് പ്രതികരണം ഉണ്ടാകും അതിന് ഒരു പ്ലാസ്റ്റിക് പ്രതികരണം ഉണ്ടാകില്ല പക്ഷേ വിള്ളലിന് സമീപം നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക് സോൺ ഉണ്ടാകും കൂടാതെ ആ പ്ലാസ്റ്റിക് സോൺ വിള്ളൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നിർണ്ണയിക്കുന്നു വാസ്തവത്തിൽ ഫ്രാക്ചർ മെക്കാനിക്സിൽ നിങ്ങൾക്ക് ക്രാക്ക് ടിപ്പിന് സമീപം കുറച്ച് പ്ലാസ്റ്റിസിറ്റി ഉണ്ടെങ്കിൽ അത് പ്രയോജനകരമാണ് ഇത് വിള്ളൽ എളുപ്പത്തിൽ വളരുന്നതിനെ തടയുന്നു അതിനാൽ സുരക്ഷയുടെ കാഴ്ചപ്പാടിൽ ഇത് നല്ലതാണ് അതിനുശേഷം നമുക്ക് മറ്റൊരു കൂട്ടം മെറ്റീരിയൽ ഉണ്ട് അത് പ്ലെയിൻ സ്ട്രെസ്ലോ പ്ലെയിൻ സ്ട്രെനിലോ കൂടുതൽ ഡക്റ്റൈൽ ആണ് നിങ്ങൾക്ക് ഇപ്പോഴും ഉയർന്ന പ്ലാസ്റ്റിക് സോൺ ഉണ്ട് കൂടാതെ പ്ലാസ്റ്റിക് സോൺ ദൃശ്യപരമായി വ്യാപിക്കുന്ന സാഹചര്യങ്ങളും നിങ്ങൾക്കുണ്ട് ഇതിന്റെ ഒരു രേഖാചിത്രം നിങ്ങൾ തയ്യാറാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഫ്രാക്ചർ വിശകലനത്തിൽ പ്ലാസ്റ്റിസിറ്റിയുടെ പങ്ക് ഇത് ചുരുക്കത്തിൽ പറയുന്നു പ്ലാസ്റ്റിസിറ്റി വ്യാപിക്കുന്ന ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ എനിക്കുണ്ടെങ്കിൽ ഒരു നിശ്ചിത പോയിന്റ് വരെ നിങ്ങൾക്ക് EPFM പ്രയോഗിക്കാൻ കഴിയും ഒരു ഘട്ടത്തിനപ്പുറം നിങ്ങൾ പ്ലാസ്റ്റിക് തകർച്ച നേരിടേണ്ടിവരും പ്ലാസ്റ്റിക് തകർച്ച മൂലം ചില ഘടനകൾ പരാജയപ്പെടാം അതിനാൽ പരാജയം ഫ്രാക്ചർ മൂലമാണോ അതായത് മെറ്റീരിയൽ വേർതിരിക്കൽ അല്ലെങ്കിൽ ഫ്രാക്ചറുണ്ടാകുന്നതിന് മുമ്പുതന്നെ പ്ലാസ്റ്റിക് സോൺ മുഴുവൻ ഘടനയിലും വ്യാപനം നടന്നോ എന്ന് നിങ്ങൾ കണ്ടെത്തണം ഫ്രാക്ചർ വിശകലനത്തിൽ നിങ്ങൾക്ക് പരാജയ വിലയിരുത്തൽ ഡയഗ്രമുകൾ ഉപയോഗിക്കാനുള്ള കാരണം അതാണ് പ്ലാസ്റ്റിക് തകർച്ച അല്ലെങ്കിൽ ഫ്രാക്ചർ എന്ന വിഭാഗത്തിൽ വരുന്നതാണോ എന്ന് കണ്ടെത്താൻ അവർ ആഗ്രഹിക്കുന്നു പ്രായോഗിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിവരുമ്പോൾ ഇത്തരത്തിലുള്ള സമീപനം ആവശ്യമാണ് പ്ലാസ്റ്റിക് സോൺ പരോക്ഷമായി പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിനുള്ള ആദ്യ സാദൃശ്യമായി നിങ്ങൾ ഏത് തരം സിദ്ധാന്തമാണ് പ്രയോഗിക്കേണ്ടത് എന്നതിന്റെ മൊത്തത്തിലുള്ള ആശയം ഇത് നൽകുന്നു ലോഡുചെയ്യുന്ന രീതികൾ നമ്മൾ ഒരു പ്രധാന ഭാഗത്തേക്ക് നീങ്ങുന്നു ക്രാക്ക് ടിപ്പിന് സമീപം ലോഡുചെയ്യുന്ന രീതികൾ എന്തൊക്കെയാണ് ഇത് ഇർവിന്റെ സംഭാവനയാണ് മൂന്ന് സ്വതന്ത്ര വഴികളുണ്ടെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു അതിൽ രണ്ട് വിള്ളൽ മുഖങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് ചലിക്കാൻ കഴിയും നിങ്ങൾ ഇപ്പോൾ ഈ ആനിമേഷനുകൾ എഴുതേണ്ടതില്ല ഈ മോഡുകൾ ഓരോന്നും നമ്മൾ കാണും നിങ്ങൾ ഈ പോയിന്റുകൾ മാത്രം എഴുതുക അനുബന്ധ മോഡുകൾ മോഡ് I മോഡ് II മോഡ് III എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കണം രണ്ടു വിള്ളൽ മുഖങ്ങൾ ചലിപ്പിക്കാൻ മൂന്ന് സ്വതന്ത്ര വഴികളുണ്ടാകാം ഇവയെ മോഡ് I മോഡ് II മോഡ് III എന്നിങ്ങനെ എടുത്തിരിക്കുന്നു ഈ ആശയത്തിന്റെ സൌന്ദര്യം എന്താണ് മൂന്ന് മോഡുകൾ ഏറ്റവും സാധാരണ ഇലാസ്റ്റിക് അവസ്ഥയിൽ ക്രാക്ക് സ്വഭാവത്തിന്റെ സാധ്യമായ എല്ലാ രീതികളും വിവരിക്കുന്നു അതിനാൽ ഒരു ജനറിക് പ്രശ്നത്തിൽ നിങ്ങൾക്ക് വിവിധ അനുപാതങ്ങളുടെ മോഡ് I മോഡ് II മോഡ് III എന്നിവയുടെ സംയോജനമുണ്ടാകും മോഡ് I ലോഡിങ് ഇത് പ്രധാനമായും മോഡ് I അല്ലെങ്കിൽ മോഡ് II അല്ലെങ്കിൽ മോഡ് III അല്ലെങ്കിൽ ഇതിന്റെ സംയോജനമാകാം ഇപ്പോൾ നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കുന്നത് ഈ ഓരോ മോഡിലും എന്തു സംഭവിക്കുന്നു അവ എങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവയിൽ ഏതാണ് മറ്റൊന്നിനേക്കാൾ അപകടകരം ക്രാക്ക് പ്രചാരണത്തിലുള്ള മറ്റ് മോഡുകൾ എന്തൊക്കെയാണ് എന്നാണ് തുറക്കുന്ന ഈ വിള്ളലിന്റെ ഒരു രേഖാചിത്രം നിങ്ങൾ തയ്യാറാക്കുക ഇത് വളരെ പ്രധാനമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ വിള്ളൽ മുഖങ്ങൾ ഇതുപോലെ തുറക്കുന്നു വിള്ളലിന്റെ മുഖത്തിന്റെ ഡിസ്പ്ലേസ്മെൻറ് വിള്ളലിന്റെ പ്ലെയിന് ലംബമാണ് ഇതിനെ മോഡ് I എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിനെ ഓപ്പണിംഗ് മോഡ് എന്നും വിളിക്കുന്നു പ്രധാനമായും നിങ്ങൾക്ക് വിള്ളൽ ഉള്ളതിനാൽ വിള്ളൽ ഇതുപോലെ തുറക്കുന്നു ലോഡ് കാരണം വിള്ളൽ ഇതുപോലെ തുറക്കുന്നു ഇത് വിള്ളൽ വളർച്ചയ്ക്കായി ലോഡിംഗ് ചെയ്യുന്ന ഏറ്റവും സാധാരണവും അപകടകരവുമായ മോഡുകളിൽ ഒന്നാണ് ആളുകൾ സിദ്ധാന്തങ്ങൾ വികസിപ്പിക്കുകയും ക്രാക്ക് ക്രമേണ ഒരു പാതയിലേക്ക് നയിക്കുമെന്ന് കാണിക്കുകയും ചെയ്യുന്നു ലോഡിംഗ് അതിന് ലംബമാണ് മോഡ് II ലോഡിംഗ് മോഡ് I ലോഡിങ് ഏറ്റവും അപകടകരമാണ് സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾ കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പോലും മോഡ് I നായുള്ള സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾ നമ്മൾ വികസിപ്പിക്കും തുടർന്ന് മോഡ് II മോഡ് III നിങ്ങൾക്ക് സ്കെച്ച് ന്യായമായ കൃത്യതയോടെ നിർമ്മിക്കാൻ കഴിഞ്ഞുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തുടർന്ന് നമ്മൾ മോഡ് II ലേക്ക് നീങ്ങുന്നു അത് സ്ലൈഡിംഗ് മോഡ് എന്നും അറിയപ്പെടുന്നു നിങ്ങൾക്ക് ഇവിടെ ഈ ആനിമേഷൻ കാണാം ഇതാണ് വിള്ളൽ കൂടാതെ വിള്ളൽ ഉപരിതലം സ്ലൈഡുചെയ്യുന്നു പ്ലെയിനിൽ ഒരു സ്ലൈഡിംഗ് ഉണ്ട് നിങ്ങൾ ഇതിനെ ഇൻ പ്ലെയിൻ ഷിയർ മോഡ് അല്ലെങ്കിൽ സ്ലൈഡിംഗ് മോഡ് എന്ന് വിളിക്കുന്നു വിള്ളലിന്റെ ഉപരിതലത്തിന്റെ ഡിസ്പ്ലേസ്മെൻറ് വിള്ളലിന്റെ പ്ലെയിനിൽ ആണ് കൂടാതെ വിള്ളലിന്റെ പ്രധാന അറ്റത്തിന് ലംബമാണ് അത് ആനിമേഷനിൽ വളരെ വ്യക്തമായി കാണാം നിങ്ങൾക്ക് വിള്ളൽ ഉണ്ടെങ്കിൽ വിള്ളൽ മുഖങ്ങൾ സ്ലൈഡുചെയ്യുന്നു അവ ഇതുപോലെ സ്ലൈഡുചെയ്യുന്നുവെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ഓപ്പണിംഗ് മോഡ് ഉണ്ട് നിങ്ങൾക്ക് സ്ലൈഡിംഗ് മോഡ് ഉണ്ട് മൂന്നാമത്തെ മോഡ് ഇത് ഇതുപോലെ കീറുകയാണ് ഇത് പ്ലെയിൻ ഷിയർ മൂലമാണ് അതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതിന്റെ ഒരു രേഖാചിത്രം നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ന്യായമായ ഒരു സ്കെച്ച് ഉണ്ടാക്കാൻ കഴിയും ക്രാക്ക് ഫ്രണ്ട് അടങ്ങിയിരിക്കുന്ന ഒരു പ്രാദേശിക മൂലകത്തിന്റെ വിള്ളൽ പ്രതലങ്ങളുടെ ഡിസ്പ്ലേസ്മെൻറ് ഇവിടെ കാണിച്ചിരിക്കുന്നു നമ്മൾ മുഴുവൻ ഒബ്ജക്റ്റും കാണിച്ചിട്ടില്ല ബാഹ്യ ലോഡിംഗ് എന്തും ആകാം വിള്ളലിന് സമീപം എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ നോക്കുകയാണ് മോഡ് III ലോഡിംഗ് വിള്ളൽ മുഖം എങ്ങനെ നീങ്ങുന്നു അതിനെ ആശ്രയിച്ച് നിങ്ങൾ അവയെ മോഡ് I മോഡ് II അല്ലെങ്കിൽ മോഡ് III എന്ന് രേഖപ്പെടുത്തുന്നു വാസ്തവത്തിൽ നിങ്ങൾ ബൈ മെറ്റീരിയൽ പ്രശ്നങ്ങൾക്ക് പോകുകയാണെങ്കിൽ പ്രത്യക്ഷത്തിൽ ബാഹ്യ ഓപ്പണിംഗ് മോഡ് വിള്ളൽ മുഖങ്ങളുടെ സ്ലൈഡിംഗിനും കാരണമാകും അതിനാൽ ഇത് പ്രശ്നത്തെ ആശ്രയിച്ചിരിക്കുന്നു ബാഹ്യ ലോഡിംഗ് എന്താണെന്ന് നമ്മൾ നോക്കുന്നില്ല നമ്മൾ വിള്ളലിന് സമീപത്തായി മാത്രം നോക്കുന്നു ഇതാണ് ടിയറിംഗ് മോഡ് മോഡ് III എന്നും അറിയപ്പെടുന്നു കൂടാതെ വിള്ളൽ മുഖങ്ങൾ ഇതുപോലെയാണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു അവ ഈ രീതിയിൽ നീങ്ങുന്നു ഔട്ട് ഓഫ് പ്ലെയിൻ ഷിയർ മോഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഇതിനെ ടിയറിംഗ് മോഡ് എന്നും വിളിക്കുന്നു കടലാസ് സാധാരണയായി ടിയറിംഗ് പ്രവർത്തനത്തിലൂടെ വേർതിരിക്കപ്പെടുന്നു എന്ന് നമ്മൾ കണ്ടു കാരണം ആരെങ്കിലും ഒരു ഷീറ്റ് പേപ്പർ നൽകി വേർപെടുത്താൻ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇത് ഇതുപോലെ വലിക്കുകയില്ല

നിങ്ങൾ ഒന്ന് മടക്കുകയും ഇതുപോലെ കീറുകയും ചെയ്യും അത് കൂടുതൽ സൌകര്യപ്രദമാണ് പേപ്പർ എളുപ്പത്തിൽ കീറുന്നു ഫ്രാക്ചർ മെക്കാനിക്സിന്റെ ആദ്യകാല ധാരണയിലെ ഒരു വെല്ലുവിളി ബാഹ്യ ലോഡിംഗിന്റെ ഒരു പ്രശ്നത്തിലാണ് ആ ഘടനയിൽ നിങ്ങൾക്ക് ഒരു വിള്ളൽ ഉണ്ടെങ്കിൽ വിള്ളൽ മുഖങ്ങൾക്ക് സമീപം ഏത് തരത്തിലുള്ള ലോഡിംഗ് ആണ് നിലവിലുള്ളത് മോഡ് I ലോഡിംഗ് മോഡ് II ലോഡിംഗ് മോഡ് III ലോഡിംഗ് വാസ്തവത്തിൽ നിങ്ങളുടെ അസൈൻമെന്റുകളിലൊന്ന് പൊതുവായ ഡിസൈൻ രംഗങ്ങളുടെ ഒരു ശ്രേണി നൽകുന്നു അവിടെ നിങ്ങൾക്ക് ഒരു ഘടനയുണ്ട് അതിൽ വിവിധ തരത്തിലുള്ള ലോഡിങ് ഉണ്ട് കൂടാതെ വിവിധ രീതിയിലുള്ള വിള്ളലുകൾ ഉണ്ട് ബാഹ്യ ലോഡിംഗ് കാരണം ഫ്രാക്ചർ മെക്കാനിക്സ് കാഴ്ചപ്പാടിൽ നിന്ന് വിള്ളൽ ഒരു മോഡ് I ലോഡിംഗ് മോഡ് II ലോഡിംഗ് അല്ലെങ്കിൽ മോഡ് III ലോഡിംഗ് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ഇത് നിസ്സാരമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരിശീലനം ഉണ്ടായിരിക്കണം

എന്താണ് സംഗ്രഹം സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്നത് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു നമ്മൾ ഇപ്പോൾ ഇത് നിർവചിച്ചിട്ടില്ലെങ്കിലും അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും സ്ട്രെസ് കോൺസൺട്രേഷൻ ഫാക്ടറിന് സമാനമായ ഈ ഓരോ മോഡുകൾക്കും സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്നവ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ഇത് സമീപ പ്രദേശത്തെ സ്ട്രെസ് ഫീൽഡിന്റെ ശക്തി നിർണ്ണയിക്കുന്നു ഇതിനെ K I എന്ന് ലേബൽ ചെയ്തിരിക്കുന്നു ഇത് k i എന്ന് വായിക്കരുത് ആളുകൾ ചെയ്യുന്ന സാധാരണ തെറ്റുകളിൽ ഒന്നാണിത് നിങ്ങൾ ഇത് K I ആയി വായിക്കണം ഇത് K II ആയി വായിക്കണം ഇത് K III ആയി വായിക്കണം അതിനാൽ തന്നിരിക്കുന്ന ലോഡിംഗിനായി K I ന്റെ മൂല്യം എന്താണ് K II ന്റെ മൂല്യം എന്താണ് എന്ന് നിങ്ങൾ കണ്ടെത്തുന്നു K III ന്റെ മൂല്യം എന്താണ് ഒരു മെറ്റീരിയൽ പരിശോധനയിൽ നിന്ന് മോഡ് I മോഡ് II മോഡ് III എന്നിവയ്ക്കുള്ള ഫ്രാക്ചർ ടഫ്നെസ് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തും കൂടാതെ അവയെ K I c K II c K III c എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് ഒരു നിർണായക മൂല്യമാണെന്ന് c സൂചിപ്പിക്കുന്നു കൂടാതെ ഇത് ഒരു മെറ്റീരിയൽ പാരാമീറ്ററായി കണക്കാക്കുന്നു ലളിതമായ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് കാര്യത്തിൽ നിങ്ങൾ എന്തു ചെയ്തു നിങ്ങൾ സംയോജിത ലോഡിംഗ് ഉണ്ടായിരുന്നപ്പോൾ പ്രിൻസിപ്പൾ സ്ട്രെസ് എന്ന ആശയം നിങ്ങൾ കണ്ടുപിടിച്ചു യീൽഡ് സ്ട്രെങ്ത്ൻറെ ലളിതമായ ടെൻഷൻ പരിശോധനയിൽ നിന്നുള്ള ഫലം നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു സംയോജിത ലോഡിംഗിൽ പരാജയം എങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു നിങ്ങൾ ഒരു പരിശോധന മാത്രമാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫ്രാക്ചർ മെക്കാനിക്സിലും നമ്മൾ ഫ്രാക്ചർ സിദ്ധാന്തങ്ങൾ പരിശോധിക്കുമ്പോൾK I c K II c K III c എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ആളുകൾ K I C യെ കണ്ടെത്തുകയും സംയോജിത മോഡ് പരാജയത്തെ പ്രവചിക്കാൻ പോലും ഇത് എത്രത്തോളം ഉപയോഗപ്പെടുത്താമെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ പരമ്പരാഗത സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്യും ഫ്രാക്ചർ മെക്കാനിക്സും തമ്മിലുള്ള സാമ്യതകൾ ഞാൻ പറഞ്ഞു കാരണം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പരിശീലിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് ഉപയോഗത്തിനു ലളിതമായിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ അതിനായി പോകുന്നത് ഈ പരാമീറ്ററുകളെല്ലാം എനിക്ക് ആവശ്യമാണെന്ന് നമ്മൾ ഒരു ഗണിതശാസ്ത്ര വീക്ഷണകോണിൽ നിന്ന് നോക്കുന്നില്ല അപ്പോൾ മാത്രമേ ഞാൻ പോയി രൂപകൽപ്പന ചെയ്യുകയുള്ളൂ ഇത് രൂപകൽപ്പന ചെയ്യുന്ന രീതിയല്ല ഇത് നടപ്പിലാക്കുന്നതിന് നിങ്ങൾ ഒരു ലളിതമായ നടപടിക്രമം കണ്ടെത്തണം

ഇപ്പോൾ നിങ്ങൾ പരിധിക്കുള്ളിലാണ് ഞാൻ ഫ്രാക്ചർ മെക്കാനിക്സിൽ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ഫ്രാക്ചർ മെക്കാനിക്സിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന ഉത്തരങ്ങൾ എന്തൊക്കെയാണ് എന്നത് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുന്ന ചോദ്യമാണ് അതിനാൽ ആദ്യത്തെ ചോദ്യം "ഒരു വിള്ളലിന്റെ നിർണായക നീളം എന്താണ് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല ഘടനകൾ പരാജയപ്പെടുന്നതുവരെ കാത്തിരിക്കുകയും വിള്ളലിന്റെ നിർണ്ണായക ദൈർഘ്യം എന്താണെന്ന് കണ്ടെത്തുകയും ചെയ്യണം നിങ്ങൾക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയണം അതിനർത്ഥം നിങ്ങൾ ഫ്രാക്ചർ സിദ്ധാന്തം വികസിപ്പിക്കണം വിള്ളൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ മനസിലാക്കണം നിങ്ങൾക്ക് മെറ്റീരിയൽ പാരാമീറ്റർ ലഭിക്കണം കൂടാതെ ഒരു പ്രത്യേക തരം ലോഡിംഗിനും സാഹചര്യത്തിനും പ്രവചിക്കാൻ നിങ്ങൾക്ക് കഴിയണം ആ ഘടനയ്ക്ക് ഈ വിള്ളൽ നിർണായകമാണ് നിങ്ങൾ ശ്രദ്ധിക്കാത്ത മറ്റൊരു പ്രധാന കാര്യം ഞാൻ ലോഡിംഗ് മോഡുകൾ കാണിച്ചപ്പോൾ ഞാൻ ഒരു വിള്ളൽ മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ പറഞ്ഞ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്ൽ നിങ്ങൾ ഇത് ഒരു ഇലാസ്റ്റിക് തുടർച്ചയാണെന്ന് അനുമാനിക്കുന്നു മെറ്റീരിയലിൽ ഡിസ്കണ്ടിന്യൂയിറ്റികളോ ഉൾപ്പെടുത്തലുകളോ ഇല്ലെന്ന് നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ ഫ്രാക്ചർ മെക്കാനിക്സിൽ എത്തുന്ന നിമിഷം അന്തർലീനമായ കുറവുകളുടെ പങ്ക് നിങ്ങൾ തിരിച്ചറിയുന്നു അന്തർലീനമായ കുറവുകൾ ഞാൻ പറയുമ്പോൾ എനിക്ക് ഒരെണ്ണം മാത്രമായി പരിഗണിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഘടനയിൽ നിരവധി വിള്ളലുകൾ ഉണ്ടാകും പിന്നീട് നിങ്ങൾ സിദ്ധാന്തം വികസിപ്പിക്കുമ്പോൾ നമ്മൾ ശരിക്കും നോക്കുന്നത് ഇവയിലൊന്നാണ് ഇതിൽ ഒന്ന് നിർണായകമാണ് അതാണ് മോഡലിംഗിൽ നമ്മൾ നോക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് വിശകലനം ചെയ്യാൻ കഴിയുന്നത് തുടക്കത്തിൽ നിങ്ങൾക്ക് ഇത് വിശകലനം ചെയ്യാൻ കഴിയുന്ന വഴിയാണ് എനിക്ക് ഒന്നിലധികം വിള്ളലുകൾ ഉണ്ടെങ്കിൽ അവ എങ്ങനെ സംവദിക്കും ഏത് വഴിയാണ് നിങ്ങൾ പോകേണ്ടത് ഡിസൈൻ രീതി എന്തായിരിക്കണംഇതിനൊക്കെ ഇപ്പോൾ പഠനങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഗവേഷണത്തിലൂടെ പരിഹരിക്കപ്പെടുന്നു അതിനാൽ ആദ്യത്തെ ചോദ്യം ഒരു വിള്ളലിന്റെ നിർണായക നീളം എന്താണ് രണ്ടാമത്തെ ചോദ്യം തന്നിരിക്കുന്ന വിള്ളൽ ദൈർഘ്യത്തിന് റസിഡ്യൂവൽ സ്ട്രെങ്ത് എന്താണ് പിന്നെ ഒരു വിള്ളൽ വളരാൻ എടുക്കുന്ന സമയം എന്താണ് അടുത്ത ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് ഇത് വളരെ പ്രധാനമാണ് അടുത്ത ചോദ്യം NDT ഷെഡ്യൂൾ എങ്ങനെ തീരുമാനിക്കും ക്രാക്ക് ശാഖകൾ ആകുന്നുവെന്ന് ഞാൻ ഇതിനകം കാണിച്ചിരുന്നു വിള്ളൽ ശാഖയാകാൻ കാരണമെന്ത് ഒടുവിൽ ഊർജ്ജം ഇല്ലാതാക്കുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണ് അതിനാൽ ഇത് ഒരു ശ്രദ്ധാകേന്ദ്രം നൽകുന്നു ഈ കോഴ്സിന്റെ അവസാനം എന്തു ഉത്തരങ്ങൾ നൽകാൻ കഴിയും നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുമെങ്കിൽ ഫ്രാക്ചർ മെക്കാനിക്സ് എന്താണെന്ന് നിങ്ങൾക്ക് ന്യായമായും മനസ്സിലായി ഈ ക്ലാസ്സിൽ ഫോട്ടോഇലാസ്റ്റിസിറ്റി സൂചിപ്പിച്ച വിള്ളലിന്റെ തീവ്രതയോടെ നമ്മൾ ആരംഭിച്ചു ഫോട്ടോഇലാസ്റ്റിക് കോൺണ്ടറുകൾ സിഗ്മ 1 മൈനസ് സിഗ്മ 2 ആണെന്നും ഞാൻ സൂചിപ്പിച്ചു അതിനാൽ നമ്മൾ ക്രാക്ക് സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾ വികസിപ്പിക്കുമ്പോൾ വിശകലന പരിഹാരത്തിൽ നിന്ന് സിഗ്മ 1 മൈനസ് സിഗ്മ 2 പ്ലോട്ട് ചെയ്യാനും പരീക്ഷണവുമായി താരതമ്യം ചെയ്യാനും കഴിയും നമുക്കു ലഭിച്ച പരിഹാരം മതിയായതാണോയെന്ന് നോക്കുക അല്ലെങ്കിൽ നമ്മൾ ഉയർന്ന ഓർഡർ നിബന്ധനകൾ എടുക്കേണ്ടതുണ്ടോ ഫോട്ടോഇലാസ്റ്റിസിറ്റിയിൽ പരീക്ഷണങ്ങൾ നടത്തി അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം ഇംഗ്ലിസിന്റെ സംഭാവന എന്താണ് ഗ്രിഫിത്തിന്റെ സംഭാവന എന്താണ് ഇർവിൻ അത് എങ്ങനെ വിപുലീകരിച്ചു എന്നതിന്റെ ചരിത്രപരമായ വികസനം നമ്മൾ പരിശോധിച്ചു തുടർന്ന് LEFM EPFM എന്നിവ എങ്ങനെ തരംതിരിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വ രൂപരേഖ നമുക്ക് ഉണ്ടായിരുന്നു ഒടുവിൽ ഗ്ലാസിന്റെ കാര്യത്തിൽ ചില ഫ്രാക്ചർ നമ്മൾ കണ്ടു ഈ കോഴ്സിന്റെ ഭാഗമായി ഉത്തരം നൽകേണ്ട ചില ചോദ്യങ്ങൾ നമ്മൾ ഉന്നയിച്ചു